ഈ കോഴ്സിന്റെ അടുത്ത ഭാഗം ഡാറ്റ വിഷ്വലൈസേഷൻ ആണ് അവസാന ക്ലാസിൽ നമ്മൾ ഡാറ്റയെക്കുറിച്ച് ചർച്ച ചെയ്തു എന്താണ് ഡാറ്റ സ്കെയിലുകൾ സ്ഥിതിവിവരക്കണക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡാറ്റയെ എങ്ങനെ വിവരിക്കും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എടുത്ത ആദ്യ പോയിന്റും നാലാമത്തെ പോയിന്റും അവസാന പോയിന്റും ഡാറ്റ വിഷ്വലൈസേഷൻ ആയിരുന്നു ഇവ ഡാറ്റയുടെ ഗ്രാഫിക്കൽ പ്രാതിനിധ്യം കാണിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ശരിയായ രൂപത്തിൽ ഡാറ്റ അവതരിപ്പിക്കേണ്ടത് ഇതിന് ചില കാരണങ്ങളുണ്ട് ഡാറ്റയുടെ വിഷ്വൽ പ്രാതിനിധ്യത്തിന്റെ സൃഷ്ടിയും പഠനവും ഡാറ്റ വിഷ്വലൈസേഷൻ എന്നറിയപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ ഡാറ്റ വിഷ്വലൈസേഷന്റെ നിർവചനമാണ് ഡാറ്റ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ഡാറ്റയുടെ യഥാർത്ഥ മൂല്യം യഥാർത്ഥത്തിൽ നമ്മൾ നിരീക്ഷിച്ച ക്രമരഹിതമായ മൂല്യങ്ങളാണ് യഥാർത്ഥ മൂല്യത്തിന് അടുത്തുള്ള ശരാശരി മൂല്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമുക്കു വ്യത്യസ്ത സാമ്പിളുകൾ ഉണ്ടെങ്കിൽ വേരിയൻസ് കാണുന്നതിന് ഇതിന്റെയെല്ലാം ശരാശരി കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ഫംഗ്ഷനുകൾ ഉണ്ട് ഡാറ്റ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശ്യത്തിനായുള്ള അടിസ്ഥാന ഉപയോഗമാണ് പ്രവർത്തനക്ഷമത നമുക്ക് ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ടുകൾ വരയ്ക്കാം എപ്പോൾ എവിടെ വരയ്ക്കണം ഉപയോഗിച്ച ആപ്ലിക്കേഷനുകൾ ഏതാണ് ഏത് ശുപാർശ ചെയ്യുന്നു ഏത് ആപ്ലിക്കേഷൻ ശുപാർശ ചെയ്യുന്നില്ല ഇവയെല്ലാം വരുന്ന ക്ലാസിൽ നമ്മൾചർച്ച ചെയ്യും ഡാറ്റാ വിഷ്വലൈസേഷനിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡാറ്റ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത വലുപ്പങ്ങളിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയും പിന്നീടുള്ള ഭാഗങ്ങളിൽ ഞാൻ അത് ചർച്ച ചെയ്യും ആദ്യത്തെ പ്ലോട്ട് ബാർ ചാർട്ടുകളാണ് ബാർ ചാർട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇതുപോലുള്ള ബാറുകളാണ് ഉയരവും ഭാരവും എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ വ്യത്യസ്ത നിറങ്ങൾ നൽകാം ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കും ഇത് ബാർ 1 ഉം ഇത് ബാർ 2 ഉം ആണ് വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ട് ഉയരത്തെയും ഭാരത്തെയും കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഘടകങ്ങളുടെ ഉയരം തൂക്കത്തേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് പരസ്പരബന്ധം കണ്ടെത്താൻ കഴിയും അവ തമ്മിലുള്ള ചില ബന്ധങ്ങൾ നമുക്കു കണ്ടെത്താൻ കഴിയും പക്ഷേ ബാർ ചാർട്ടുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഗ്രാഫിക്കൽ രീതി 2 തരം ബാർ ചാർട്ടുകളുണ്ട് അവ സ്റ്റാക്കഡ് ബാറുകളും സ്പ്രെഡ് ബാറുകളുമാണ് ഇവ സ്റ്റാക്കഡ് ബാറുകളാണ് ഇവിടെ 1234 എണ്ണങ്ങൾ കാണാൻ കഴിയുന്നു ഇവ സ്പ്രെഡ് ബാറുകളാണ് 1 2 3 നിരീക്ഷണങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 2 3 ഇനങ്ങളുടെ എണ്ണം എനിക്ക് കണ്ടെത്താൻ കഴിയും ഇത് ഇവിടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു അവയുടെ ഭാരവും ആനുപാതികമാണ് അതിനാൽ നമുക്ക് ഉയരം മില്ലീമീറ്ററും ഭാരം ഗ്രാമിൽ ഉപയോഗിക്കാം എന്നിരുന്നാലും ഇത് ഒരു സ്കെയിലിൽ 2 വ്യത്യസ്ത എന്റിറ്റികളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ശരിയായ മാർഗമല്ല പക്ഷേ ഞാൻ ഇത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു ബാർ ചാർട്ട് ആണ് കൂടാതെ ഇതൊരു സ്പ്രെഡ് ബാർ ആണ് നമ്മൾ ഒരു ബാർ മറ്റൊന്നിനു മുകളിൽ അടുക്കി വയ്ക്കുമ്പോഴാണ് സ്റ്റാക്കഡ് ബാർ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നമുക്ക് വ്യത്യസ്ത താപനിലകൾ വരക്കാൻ കഴിയും ഇവിടെ സ്കെയിൽ ഡിഗ്രി സെന്റിഗ്രേഡിൽ ആണെങ്കിൽ ഇതുപോലുള്ള ഒരു സ്പ്രെഡ് ബാർ ഉപയോഗിക്കും പക്ഷേ താപനില പ്ലോട്ടിന് കൂടുതൽ അനുയോജ്യമായത് ലൈൻ ഡയഗ്രം ആയിരിക്കും ഞാൻ ഇവിടെ താപനില ഡിഗ്രി സെന്റിഗ്രേഡ് ഇടുകയാണെങ്കിൽ താപനില 20 ഡിഗ്രിയും താപനില 15 ഡിഗ്രിയും തമ്മിൽ കൂട്ടാൻ കഴിയില്ല ഇത് 20 ആണ് ഇത് 35 എന്ന് ഞാൻ പറയട്ടെ ഈ 20 ഡിഗ്രി ഈ 15 ഡിഗ്രി ആകെ ഇത് 35 ഡിഗ്രി ആക്കുന്നു ഇപ്പോൾ 20 ഡിഗ്രി താപനിലയും 15 ഡിഗ്രി താപനിലയും ചേരുമ്പോൾ 35 ഡിഗ്രി സെന്റിഗ്രേഡുകൾക്ക് തുല്യമല്ല അതിനാൽ ഇത് ഇവിടെ ശുപാർശ ചെയ്യുന്നില്ല എന്നിരുന്നാലും ഉയരങ്ങൾ അല്ലെങ്കിൽ പരിശോധിച്ച കഷണങ്ങളുടെ എണ്ണം പരിശോധിച്ച കഷണങ്ങളുടെ കുറിപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും പരിശോധിച്ചത് ആദ്യ മണിക്കൂറിൽ ഞാൻ 5 കഷണങ്ങൾ പരിശോധിച്ചുവെന്ന് ഞാൻ പറയട്ടെ അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ ഞാൻ 3 കഷണങ്ങൾ കൂടി പരിശോധിച്ച് 8 ആക്കി അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ ഞാൻ 4 കഷണങ്ങൾ പരിശോധിച്ചു അത് 12 ആക്കുന്നു ഇത് 4 ആണ് ഇത് 3 ആണ് ഇത് 5 ആണ് അത്തരം സന്ദർഭങ്ങളിൽ സ്റ്റാക്കഡ് ബാർ ഉപയോഗിക്കാം അതിനാൽ നമ്മുടെ ഡാറ്റയ്ക്കായി ഏത് തരം ചാർട്ട് ഏത് തരം ഗ്രാഫിക്കൽ ഉപകരണം ഉപയോഗിക്കണമെന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് ഹിസ്റ്റോഗ്രാം ആണ് ഡാറ്റാ മൂല്യങ്ങളുടെ ആവൃത്തി കാണിക്കുന്ന ഒരു പ്രത്യേക തരം ബാർ ചാർട്ട് ആണ് ഹിസ്റ്റോഗ്രാം അതിന്റെ ഉപയോഗങ്ങൾ ഡാറ്റ മൂല്യങ്ങളുടെ ഡാറ്റ വിതരണം ദൃശ്യവൽക്കരിക്കുക ഡാറ്റാ സ്പ്രെഡ് എത്ര വലുതാണെന്ന് അറിയാൻ ഫ്രീക്യുഎൻസി ഡിസ്റ്റിബുഷനിൽ നമ്മൾ ചർച്ച ചെയ്തതു പോലെ ഹിസ്റ്റോഗ്രാം ഒരു ബാർ ചാർട്ട് ആണ് ഇത് ഉയരം ആണെങ്കിൽ ഈ ദിശയിലെ ഉയരം ഈ ദിശയിൽ നമുക്ക് ഫ്രിക്യൻസി ലഭിക്കുന്നു എന്നത് ഒരു തരം ഫ്രിക്യൻസി ഡിസ്ട്രിബൂഷൻ ആണ് ഉയരം 0 മുതൽ 10 വരെയാണെന്ന് ഞാൻ പറയട്ടെ വീണ്ടും എനിക്ക് 10 മുതൽ 20 വരെ ഉണ്ട് തുടർന്ന് 20 മുതൽ 30 വരെ ഇടുക എനിക്ക് ഇത്തരത്തിലുള്ള പ്ലോട്ട് ഉണ്ടെങ്കിൽ ഇതിനെ ഹിസ്റ്റോഗ്രാം എന്ന് വിളിക്കുന്നു70 80 മൂല്യം 0 ആണെന്ന് പറയട്ടെ പരമാവധി മൂല്യം 80 ആണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളുടെ ഉയരം ഇതായിരിക്കാം നിങ്ങൾക്ക് ഇടവേളകളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്പറുകളായി വിഭജിക്കാൻ കഴിയില്ല ഉദാഹരണമായി ഉയരത്തിന്റെ മൂല്യം 0 മുതൽ 800 വരെ വ്യത്യാസപ്പെടുന്നു എങ്കിൽ അത് 10 ഇന്റെ ഇടവേളയാണ് ഫലം യഥാർത്ഥത്തിൽ 800 മൈനസ് 0 ബൈ 10 ആയിരിക്കും ഇത് 80 ബാറുകൾക്ക് തുല്യമാണ് അതിനാൽ ഒരു ചാർട്ടിൽ 80 ബാറുകൾ വരയ്ക്കുന്നത് വളരെ എളുപ്പമല്ല അതിനാൽ ഒന്നാമത്തെ ചാർട്ടിൽ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് എനിക്ക് ഒരു പേപ്പറിൽ ഉൾക്കൊള്ളിച്ച് വരയ്ക്കാൻ കഴിയും ഞാൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽപ്പോലും ഹിസ്റ്റോഗ്രാമിലെ 8 ബാറുകളും ഉപയോഗിക്കാൻ പ്രയാസമാണ് കാരണം അതിൽ സാധ്യമായ എല്ലാ നിരീക്ഷണങ്ങളും ഉൾക്കൊള്ളണം 0 മുതൽ 800 വരെയുള്ള എല്ലാ 800 മൂല്യങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിനായി ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ഉപയോഗിച്ച ബാറുകളുടെ എണ്ണം ശരിയാക്കണം ഉൾക്കൊള്ളാൻ കഴിയുന്നത് 3 മുതൽ 13 വരെ ബാറുകളാണ് നിങ്ങൾക്ക് 30 ബാറുകൾക്കപ്പുറത്തേക്ക് പോകാം പക്ഷേ 3 മുതൽ 13 വരെ അനുയോജ്യമായ ഒരു സംഖ്യയാണ് ഇത് ഹിസ്റ്റോഗ്രാമിന്റെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പാണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഇവിടെ ഇടവേളകൾ വളരെ വ്യക്തമായി നിർവചിക്കേണ്ടതുണ്ട് ഹിസ്റ്റോഗ്രാമിനെ മറ്റ് ഗ്രാഫുകളുമായി താരതമ്യപ്പെടുത്താൻ നമുക്കു കഴിയണം നമുക്ക് നിരീക്ഷണങ്ങളുടെ എണ്ണവും കൂടുതൽ ബാറുകളും ഉണ്ടെങ്കിലും 3 മുതൽ 13 വരെ ബാറുകളാണ് അനുയോജ്യമായത് ചെറിയ ഇടവേള മാത്രം തിരഞ്ഞെടുക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബാറുകൾ ഉപയോഗിക്കാം ചിലപ്പോൾ ഇത് ചെയ്യാൻ മറ്റ് മാർഗമില്ലെങ്കിൽ അത്തരം കേസുകളും സംഭവിക്കുന്നു ഇപ്പോൾ ബാർ ചാർട്ടിനൊപ്പം ഹിസ്റ്റോഗ്രാം താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സ്കെയിലുകൾ ഉപയോഗിച്ച് ഡാറ്റ വരയ്ക്കാനും കഴിയും ഉദാഹരണത്തിന് എനിക്ക് 0 മുതൽ 150 വരെയുള്ള ഉയരത്തെ പ്രതിനിധീകരിക്കണം എന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഉയരം പരിശോധിക്കാം ഇത് പുരുഷന്മാരുടെ ഉയരവും സ്ത്രീകളുടെ ഉയരവും ഞാൻ ഇത് കാണിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ പുരുഷന്മാരുടെ പരമാവധി ഉയരം 150 എന്ന ചെറിയ സംഖ്യയാണ് ഞാൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ 165 ഇടാം സ്ത്രീകൾക്ക് ഇത് 148 ആയിരിക്കണം ഞാൻ പറയട്ടെ ഇതാണ് ഉയരം 165 148 ഇത് ഒരു വഴിയാണ് മറ്റൊരു മാർഗം ഞാൻ 0 ൽ ആരംഭിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇത് 140 മുതൽ 170 വരെ കാണിക്കുന്നു എനിക്ക് ഇവിടെ 150 ഉം 160 ഉം ഉണ്ട് അപ്പോൾ എനിക്ക് പറയാൻ കഴിയും സ്ത്രീകൾക്ക് ഉയരം ഇതിന് അടുത്തായിരിക്കും ഇവിടെ 148 ഉം പുരുഷന്മാർക്ക് ഉയരവും ഇവിടെ ഉണ്ടാകും അതിനാൽ ഈ മൂല്യം ഉയർന്നതാണെന്ന് തോന്നുന്നു ഈ വ്യത്യാസം ഉയർന്നതാണ് ബാർ ഡയഗ്രാമുകളുടെ കാര്യത്തിൽ നമുക്ക് സ്കെയിലുകൾ ഉപയോഗിക്കാം ഇവിടെ സ്കെയിൽ മാറ്റുന്നതിലൂടെ ഇതിനെ സ്കെയിലുകളുപയോഗിച്ച് ചീറ്റിംഗ് എന്ന് വിളിക്കുന്നു ഇത് മാർക്കറ്റിങ്ങിനെ ആശ്രയിക്കുന്നു ഇത് വളരെ വഞ്ചനാപരമാണെങ്കിൽ ചില സമയങ്ങളിൽ ചെലവ് ലാഭം കാണിക്കേണ്ടിവരുമ്പോൾ കാണിക്കും ഈ വലിയ ലാഭം അവിടെയുണ്ട് വൈകല്യങ്ങൾ കുറയുന്നുവെന്ന് കാണിക്കേണ്ടിവരുമ്പോൾ അവ വലിയ വ്യത്യാസം കാണിക്കും ഒരു ചെറിയ വ്യത്യാസമുണ്ടെന്ന് അവർ കാണിക്കേണ്ടയിടത്ത് ചെലവ് വർദ്ധിപ്പിച്ചതായി അവർ പറയുന്നിടത്ത് ഇത് കാണിച്ചേക്കാം ഈ ചെറിയ ചെലവ് വർദ്ധനവ് മാത്രം ഈ കാര്യങ്ങൾ ചിലപ്പോൾ വഞ്ചനാപരമാണ് ഇപ്പോൾ അടുത്തത് പൈ ചാർട്ടുകളാണ് പൈ ചാർട്ടുകൾ നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ പിസ്സ പൈ പോലെയാണ് ഡാറ്റയെ ഇവിടെ വിവിധ മേഖലകളായി വിഭജിക്കാം നിങ്ങൾക്ക് ഇവിടെ സ്കെയിലുകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയില്ല കാരണം ഈ മുഴുവൻ ഡാറ്റയും അല്ലെങ്കിൽ മുഴുവൻ പൈയും 100 ശതമാനമാണ് അതിനാൽ ഓരോ ഗ്രൂപ്പിലെയും ഒരു ഭാഗം എത്രമാത്രം സംഭാവനയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് കാണിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്നു അതിനാൽ ഈ കോഴ്സിനെ നിങ്ങൾ 30 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സായി വിഭജിക്കുമ്പോൾ എനിക്ക് ഇവിടെ നൽകാവുന്ന സാധാരണ ഉദാഹരണമാണ് പൈ ചാർട്ടുകൾ രേഖീയ അളവുകൾ രേഖീയ കോണീയ അളവുകൾ എന്നിങ്ങനെ നിർദ്ദിഷ്ട പരിധിയിൽ എത്ര സമയം ചെലവഴിക്കുന്നുവെന്ന് നമുക്ക് വിഭാഗങ്ങളായി തിരിക്കാം ലബോറട്ടറി പ്രകടനത്തിനായി എത്ര സമയം ചെലവഴിക്കുന്നു 33 ശതമാനം പേർക്ക് ലബോറട്ടറി പ്രകടനങ്ങൾ നടത്താൻ കഴിയുമെന്ന് നമുക്ക് പറയാം 30 ശതമാനം എന്ന് ഞാൻ പറയട്ടെ മെട്രോളജിയിലെ സ്ഥിതിവിവരക്കണക്കുകളിൽ 25 ശതമാനം കോഴ്സ് അവതരിപ്പിക്കുമ്പോൾ 20 ശതമാനം അപ്പോൾ എനിക്ക് 30 25 എന്നത് 55 പ്ലസ് 20 75 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 15 എന്ന് വിഭജിക്കാം പൈ ചാർട്ടിലെ മൂല്യം താപ ഉപകരണത്തെ ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഉപകരണങ്ങളെ ആശ്രയിച്ചിരിക്കാം പക്ഷേ മുഴുവൻ പൈ ചാർട്ടിലും പൂർണ്ണമായ ഡാറ്റ സെറ്റ് അടങ്ങിയിരിക്കുന്നു എന്നതാണ് കാര്യം ഇത് മൊത്തം 100 ശതമാനമാണ് നമുക്ക് അക്കങ്ങളും ഇടാം അതിനാൽ മൊത്തത്തിലുള്ള മേഖലയിലെ ഓരോ മേഖലയുടെയും സംഭാവനയെ പ്രതിനിധീകരിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു അതിനാൽ അടുത്തതായി എനിക്ക് ഇവിടെ സ്കാറ്റർ പ്ലോട്ടുകളുണ്ട് സ്കാറ്റർ പ്ലോട്ടുകൾ വളരെ പ്രധാനമാണ് 2 വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിന് ഇവ നന്നായി ഉപയോഗിക്കുന്നു കാരണം പരസ്പര ബന്ധമായി കാരണവും ഫലവും ഉണ്ടാകാം ഇതുപോലുള്ള സ്കാറ്റർ പ്ലോട്ട് ഉണ്ടായിരിക്കാം എന്റെ മെട്രോളജി ലാബിൽ ഞാൻ ഫോഴ്സ് അളക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഹാർഡ്നെസ് അളക്കാൻ ശ്രമിക്കുകയാണ് ഹാർഡ്നെസ് ഞാൻ അത് മറ്റൊരു വിധത്തിൽ നോക്കിയാൽ ഹാർഡ്നെസും തേയ്മാനവും തേയ്മാനത്തിൻറെ ചില മാതൃകകൾ പരീക്ഷിക്കുമ്പോൾ ഹാർഡ്നെസ് വർദ്ധിക്കുന്നു കൂടുതൽ ഹാർഡ്നെസ്ന് ഉള്ളപ്പോൾ തേയ്മാനം കുറവാണെന്ന് ഞാൻ കാണും കുറഞ്ഞ ഹാർഡ്നെസ് ആണെങ്കിൽ തേയ്മാനം കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള സ്കാറ്റർ പ്ലോട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ഡാറ്റ സെറ്റിന് 20 ൽ കൂടുതൽ നിരീക്ഷണങ്ങൾ ഉള്ളപ്പോൾ ഇത് ഇങ്ങനെയാകാം സംഖ്യ വ്യത്യാസപ്പെടാം പക്ഷേ അവിടെ നമുക്ക് നിരവധി നിരീക്ഷണങ്ങൾ ഉണ്ട് അതിനാൽ ഇതുപോലൊരു വരി വരയ്ക്കാൻ ശുപാർശ ചെയ്തിട്ടില്ല ഇത്രയും വലുത് ഈ പോയിന്റുകളെല്ലാം ഒരു വരിയിൽ അതിനാൽ പ്രധാന പ്രവണത എന്താണ് എന്ന വിശാലമായ ആശയം സ്കാറ്റർ പ്ലോട്ട് നിങ്ങൾക്ക് നൽകുന്നു ഇത് ഒരു തരം നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് എനിക്ക് പറയാൻ കഴിയും എനിക്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിയും മൈനസ് 0 8 ന് അടുത്ത് ഇതാണ് സ്കാറ്റർ പ്ലോട്ട് ഉപയോഗം കോറിലേഷൻ ചിലപ്പോൾ കാരണവും ഫലവും ആകാം ചിലപ്പോൾ കോറിലേഷൻ 0 ആണ് ഇവിടെ ഇതുപോലെയുള്ള സ്കാറ്റർ പ്ലോട്ട് കോറിലേഷൻ 0 ആണ് ചിലപ്പോൾ നോൺ ലീനിയർ കർവുകൾ ഉണ്ടെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് ഇതുപോലെയാണ് ഇവിടെ കോറിലേഷൻ കോയിഫിഷ്യന്റ് രണ്ട് സന്ദർഭങ്ങളിലും 0 ന് തുല്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ കോറിലേഷൻ ഇല്ല എന്നാൽ ഇവിടെ കേസ് 1 ഇത് കേസ് 2 കേസ് 1 അവയ്ക്ക് കോറിലേഷൻ ഉണ്ട് ഇത് ആദ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പിന്നീട് കുറയുന്നു പക്ഷേ ഇത് നോൺ ലീനിയർ ആണ് ഇതിന് ഇവിടെ കുറച്ച് കർവുണ്ട് അതിനാൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് പ്രവർത്തിക്കുന്നില്ല എന്നാൽ നമുക്ക് എങ്ങനെയുള്ള ഡാറ്റയുണ്ട് എന്നതിന്റെ ഏകദേശ ആശയം കണ്ടെത്താൻ സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കാം അടുത്തത് ലൈൻ ചാർട്ടുകളാണ് എക്സ് വേരിയബിൾ ആയ ലൈൻ ചാർട്ടുകൾ പലപ്പോഴും ട്രെൻഡുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ ലൈൻ ചാർട്ടുകൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് എനിക്ക് ഉപകരണത്തിന്റെ കാലപ്പഴക്കവും വൈകല്യങ്ങളുടെ എണ്ണവും ഉണ്ട് ഇത് ഇതുപോലെയാകാം ആദ്യ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാം പോയിന്റ് നാലാമത്തെ പോയിന്റ് അഞ്ചാം പോയിന്റ് ആറാം പോയിന്റ് ഉപകരണം 40 വർഷം ഉപയോഗിച്ചു എന്ന് ഇരിക്കട്ടെ വൈകല്യങ്ങളുടെ എണ്ണം കാലപ്പഴക്കം അനുസരിച്ചു നമുക്ക് കാണാൻ കഴിയും തകരാറുകളുടെ എണ്ണം അല്ലെങ്കിൽ ഫലപ്രദമായ നിരീക്ഷണങ്ങളുടെ എണ്ണം അന്നുമുതൽ എടുക്കുന്നത് വർദ്ദിക്കുന്ന ട്രെൻഡ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയും ഇത് ഇവിടെ കാണിക്കുന്നു കണ്ട്രോൾ ചാർട്ടുകൾ അല്ലെങ്കിൽ X ബാർ ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ലൈൻ ഡയഗ്രം കണ്ട്രോൾ ചാർട്ടിൽ മുകളിലെ നിയന്ത്രണ പരിധി നമുക്ക് കേന്ദ്ര രേഖയാണെന്ന് കാണാം ഒരു ദിവസത്തിൽ നമ്മൾനിരീക്ഷിക്കുന്ന ഓരോ നിരീക്ഷണത്തിലും മൂല്യം ഇവിടെ ഇടും 1 2 3 4 5 6 7 8 9 എന്നിങ്ങനെയുള്ളവയുടെ മൂല്യം നമ്മൾ ഇടുന്നു തുടർന്ന് നമ്മൾ ഈ രേഖാചിത്രം വരച്ചാൽ ഇതിന് ഇത്തരത്തിലുള്ള പ്രവണതയുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് 1 2 3 4 5 6 7 8 എന്നിവയിൽ വന്ന ഒരു ഔട്ട്ലിയറാണ് അത് എട്ടാം സ്ഥാനത്ത് എത്തി കൂടാതെ ചിലപ്പോൾ ലൈൻ ഡയഗ്രാമിൽ ഈ ഡാറ്റ ഇതുപോലെയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ഒരു പീക്ക് ഉണ്ടാകും എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഈ പീക്ക് സംഭവിച്ചതെന്നും നമുക്ക് കാണാനാകും ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു പീക്ക് അല്ലെങ്കിൽ ഞാൻ അതിനെ സ്പൈക്ക് എന്ന് വിളിക്കുന്നു ഇതാണ് സ്പൈക്ക് എന്തുകൊണ്ടാണ് ഈ സ്പൈക്ക് വന്നത് ലൈൻ ഡയഗ്രാമിലും നമുക്ക് സ്കെയിലുകൾ ഉപയോഗിച്ച് വരയ്ക്കാം നമുക്ക് കുറഞ്ഞ വേരിയേഷനോ കൂടുതൽ വേരിയേഷനോ കാണിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് സ്കെയിലുകൾ ഉപയോഗിച്ച് വരയ്ക്കാം ഉദാഹരണത്തിന് പ്രായം എനിക്ക് പ്രായം കാണിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമുക്കു സ്കെയിലുകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയും അതായത് ഗ്രാഫ് ചെറുതാണെന്നോ ഗ്രാഫിന്റെ ചരിവ് കുറവാണെന്നോ ഞാൻ കാണിക്കേണ്ടതുണ്ട് ട്രെൻഡ് കുറവാണെന്ന് കാണിക്കണമെങ്കിൽ എനിക്ക് ഇത് വിശാലമാക്കാം എനിക്ക് ഇവിടെ ഹൊറിസോണ്ടൽ സ്കെയിൽ വിശാലമാക്കാൻ കഴിയും എനിക്ക് 0 മുതൽ 50 വയസ്സ് വരെ പ്രായം കാണിക്കാൻ കഴിയും ഇവിടെ എനിക്ക് 0 മുതൽ 10 വയസ്സ് വരെ അല്ലെങ്കിൽ 0 മുതൽ 15 വയസ്സ് വരെ പ്രായം കാണിക്കാൻ കഴിയും ഇത് 0 മുതൽ 50 വർഷം വരെ ആയിരിക്കുമ്പോൾ ഒരു ചരിവ് ഇതുപോലെ വർദ്ധിക്കുന്നു 0 മുതൽ 10 വരെ ചരിവ് അല്പം കൂടി കാണും തീറ്റ θ ഫൈയെക്കാൾ φ വലുതാണ് ഒപ്പം ചരിവ് ഉയർന്നതാണെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും അതിനാൽ ഇത് എല്ലായ്പ്പോഴും സ്കെയിലുകളുടെ പിശകുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തത് ബബിൾ പ്ലോട്ട് ആണ് ബബിൾ പ്ലോട്ട് ഒരു തരം സ്കാറ്റർ പ്ലോട്ടാണ് എന്നാൽ നമുക്ക് അതിലേക്ക് മറ്റൊരു ഡൈമെൻഷൻ അവതരിപ്പിക്കാനും കഴിയും മറ്റൊരു അളവ് മറ്റൊരു വേരിയബിൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷേ തൊഴിലാളികളുടെ ഭാരം ഉയരം എന്നിവയെക്കുറിച്ചാണ് ചിതറിക്കിടക്കുന്ന പ്ലോട്ടുകളിലെ ഡോട്ടുകളുടെ സ്ഥാനത്ത് ഞാൻ ബബ്ൾസ് ഇടുന്നു ഈ ബബ്ൾസ് വ്യക്തിയുടെ പ്രായത്തെ പ്രതിനിധീകരിക്കുന്നു ബബിളിന്റെ വലുപ്പം തൊഴിലാളിയുടെ പ്രായത്തിന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ മൂന്നാമത്തെ വേരിയബിളിനെ പ്രതിനിധീകരിക്കാൻ ബബിൾ പ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും നമുക്ക് സർഫേസ് ഡയഗ്രമുകൾ പോലുള്ള 3 D പ്ലോട്ടുകളും ഉണ്ടായിരിക്കാം മൂന്നാമത്തെ വേരിയബിളിനെ പ്രതിനിധീകരിക്കുന്നതിനു ബബിൾ പ്ലോട്ട് ഉപയോഗിക്കുന്നു 2 ഡയമെൻഷനിൽ നമുക്ക് ഡാറ്റയുടെ മൂല്യമോ ഫീൽഡോ മാത്രമേ കാണാൻ കഴിയു

അടുത്തതായി ബോക്സ് പ്ലോട്ട് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വീക്ഷണകോണിൽ നിന്ന് ബോക്സ് പ്ലോട്ട് വളരെ പ്രധാനമാണ് പക്ഷേ ബോക്സ് പ്ലോട്ടിൽ ഡാറ്റയെ ക്വാർട്ടൈലുകളായി വിഭജിക്കുന്നു ഇതാണ് എന്റെ ബോക്സ് പ്ലോട്ട് ഞാൻ എന്റെ ഡാറ്റയെ ക്വാർട്ടൈലുകളായി വിഭജിക്കുന്നു ഇതാണ് എന്റെ ഏറ്റവും കുറഞ്ഞ നിരീക്ഷണം ഇതാണ് എന്റെ ഏറ്റവും ഉയർന്ന നിരീക്ഷണം അതിനാൽ ഞാൻ ചർച്ച ചെയ്തതുപോലെ ഇത് എന്റെ ശരാശരി ഇത് Q 1 Q 2 എന്നിവയാണ് അതിനർത്ഥം എനിക്ക് ഇവിടെ 25 ശതമാനം ഡാറ്റ 25 ശതമാനവും ഇവിടെ 25 ശതമാനവും ഇവിടെ 25 ശതമാനവും ഉണ്ട് ഇതാണ് എന്റെ ബോക്സ് പ്ലോട്ട് ഞാൻ ഇവിടെ അളവുകൾ ഇടുകയാണ് ഇത് 25 ശതമാനമാണ് ഡാറ്റയുടെ 25 ശതമാനം 25 ശതമാനം മൂല്യങ്ങൾ തമ്മിലുള്ള വരി നിർണ്ണയിക്കുന്നു 30 മൂല്യങ്ങളുണ്ടെങ്കിൽ 30 മൂല്യം എനിക്ക് 40 മൂല്യങ്ങൾ 40 മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവയിൽ ഓരോന്നിനും 10 മൂല്യങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഈ വരി വിസ്കർ എന്നറിയപ്പെടുന്നു മൃഗങ്ങൾക്ക് വിസ്കർ ഉള്ളതുപോലെ ഇത് മീശയിലെന്നപോലെ നീളമുള്ളയാണ് അതിനാൽ ഇത്തരത്തിലുള്ള വിസ്കർ ഒരു നീണ്ട വിപുലീകൃത രേഖയാണ് ഇത് ബോക്സ് വിസ്കർ പ്ലോട്ട് എന്നും അറിയപ്പെടുന്നു ബോക്സ് പ്ലോട്ടിന്റെ പ്രാധാന്യം എന്താണ് യഥാർത്ഥത്തിൽ ഇത് ഇവിടെ ശരാശരിയാണ് ഡാറ്റയുടെ സ്ഥാനം നമുക്ക് കാണാൻ കഴിയും എവിടെയാണ് ഞങ്ങളുടെ ഡാറ്റ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് എന്റെ ഡാറ്റയിൽ എനിക്ക് ഇവിടെ ബോക്സുകൾ സ്ഥാപിക്കാൻ കഴിയും ഇത് ഇതുപോലെയാണെന്ന് ഞാൻ പറയട്ടെ ഉദാഹരണത്തിന് ഇത് വ്യത്യസ്ത ഉപഭോക്താക്കളിൽ നിന്നുള്ള അറ്റകുറ്റപ്പണികളുടെ ചിലവാകാം ഇത് കാറിന്റെ മോഡലാകാം മാരുതി റിസപ്റ്റർ മോഡലുകൾക്ക് സമാനമായ ഒരു നിർദ്ദിഷ്ട കമ്പനിക്ക് ഇത് മാരുതി ഡിസയർ ആകാം ഇത് മാരുതി ഇക്കോ ബലേനോ സെലെറിയോ എർട്ടിഗയെപ്പോലെ ആകാം ഉപഭോക്താവിനുള്ള വില എന്താണ് ഓരോ ഡാറ്റയ്ക്കും 400 ഉപഭോക്താവ് എന്ന് പറയട്ടെ 1 2 3 ന് 400 ഉപഭോക്താക്കളുണ്ട് ഒരു ബോക്സ് പ്ലോട്ടിന് 100 ശതമാനം അതിനാൽ ഈ സാഹചര്യത്തിൽ മീഡിയൻ അല്ലെങ്കിൽ സെൻട്രൽ ഡാറ്റ താഴത്തെ വശത്തേക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആദ്യ കേസിൽ ഇത് മുകളിലത്തെ ഭാഗത്താണ് മൂന്നാമത്തെ കേസിൽ ഇത് മുകളിലുമാണ് അതിനാൽ ഇത്തരത്തിലുള്ള ബോക്സ് പ്ലോട്ടിന് നിങ്ങൾക്ക് ചെറിയ സൂചന നൽകാൻ കഴിയും എനിക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ ഇവിടെ ശരാശരി പോയിന്റുകളിൽ ചേരാനോ കഴിയും ഇത് എന്റെ ലൈൻ ചാർട്ടുകളുടെ വിപുലീകരണമാണ് ലൈൻ ചാർട്ട് പച്ച നിറമാണ് ഒപ്പം വിസ്കർ പ്ലോട്ടുകൾ ഓരോ പോയിന്റുകളുടെയും കൂടുതൽ വിശദാംശങ്ങൾ ഇവിടെ നൽകുന്നു അതിനാൽ ഇത് ബോക്സും വിസ്കർ പ്ലോട്ടും ആണ് മറ്റ് ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും അടുത്തത് ഡോട്ട് പ്ലോട്ട് ആണ് ഡോട്ട് പ്ലോട്ട് ഡാറ്റ റെക്കോർഡു ചെയ്യുന്നു അത് എപ്പോൾ സംഭവിക്കുന്നു ഞാൻ കാറുകളുടെ ഉദാഹരണം എടുക്കുന്നതുപോലെ കാറുകൾ മാത്രമാണ് സർവീസ് സ്റ്റേഷനുകളിലേക്ക് സർവീസ് വരുന്നത് ഓരോ കാറും സർവീസ് നടത്തുന്നു അവർ അത് എത്ര കാറുകൾ ഉണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ദിവസവും എത്ര വ്യത്യസ്ത മോഡലുകൾ അവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അതിനാൽ അവർക്ക് ഇവിടെ വ്യത്യസ്ത മോഡലുകൾ ഇടാം നമുക്ക് ഇവയെ വ്യത്യസ്ത മോഡൽസ് ആക്കി മാറ്റാം എനിക്ക് ഇവിടെ കുറച്ച് പിന്നുകൾ വയ്ക്കാനും ഇവിടെ വളയങ്ങൾ ഇടാനും കഴിയും ഇവ മാരുതി കാറിന്റെ മോട്ടോറുകളാണെന്ന് ഞാൻ പറയട്ടെ മാരുതി ഡിസയർ സെലെറിയോ മാരുതി എർട്ടിഗ എന്ന് വിളിക്കുന്നു പിന്നെ മാരുതി ഈക്കോ നിങ്ങൾക്ക് എസ്റ്റിലോ പോലുള്ള ഏത് മോഡലും ഇടാം അതിനാൽ അവർ സർവീസ് ചെയ്യുന്ന ഓരോ കാറും ഇവിടെ ഒരു വളയം ഇടുന്നു അവർ ഇവിടെ ഒരു വളയം ഇടുന്നു ഒരു ദിവസം ഓരോ കാറും വരുമ്പോൾ അവർ വീണ്ടും ഇവിടെ ഒരു വളയം ഇടുന്നു അവർക്ക് ഒരു സെലെറിയോ ലഭിക്കുന്നു വളയം ഇടുന്നു അവർക്ക് ഒരു എർട്ടിഗ ലഭിക്കുന്നു വളയം ഇടുന്നു തുടർന്ന് ഡാറ്റ അനുസരിച്ച് ഒരു വളയം ഇടുന്നു ഇത്തരത്തിലുള്ള പ്ലോട്ട് ഇതുപോലെ ഇടാം 1 2 1 2 ഞാൻ ഇവിടെ വളയങ്ങൾ ഇടുന്നു 1 2 3 4 1 2 3 1 2 3 1 2 അതിനാൽ ഇത് ഡോട്ട് പ്ലോട്ട് ആണ് ഇപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷനിൽ അടുത്തത് വരുന്നത് പട്ടികകളാണ് പട്ടികകൾ വളരെ സാധാരണമാണെന്ന് നമുക്കറിയാം നമ്മൾ പട്ടിക ഉപയോഗിക്കുന്നത് വരികളും നിരകളും ഉള്ള ഒരു തരം മാട്രിക്സാണ് നിരകൾക്കായി ടൈലുകൾ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് കൂടാതെ വരികൾക്കുള്ള ടൈലുകളും പട്ടികയുടെ ശീർഷകവും അതിനാൽ റ്റേബിൾസിലും നമുക്ക് ശതമാനത്തെ പ്രതിനിധീകരിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇത് ഒരു ടേബിൾ ആണ് ഇവിടെ നിരകൾക്ക് ടൈറ്റിൽസ് ഉണ്ട് ഇവിടെ വരികൾക്കുള്ള ടൈറ്റിൽസ് ഉണ്ട് നമുക്ക് കുറച്ച് ഡാറ്റയുണ്ട് ആ ഡാറ്റയെ ശതമാനമായും ഉൾപ്പെടുത്താം അതിനാൽ ഈ ഉദാഹരണങ്ങളെല്ലാം കണക്കിലെടുക്കാം അതിനാൽ ഇവ സാമ്പിളുകളായതിനാൽ സാമ്പിൾ ശതമാനം ജനസംഖ്യാ ഉദ്ദേശ്യ ശതമാനവുമായി നേരിട്ട് താരതമ്യപ്പെടുത്താമെന്ന് നമ്മൾ കരുതുന്നു സാമ്പിൾ പ്രതിനിധിയാണോ അല്ലയോ എന്ന് വിലയിരുത്തുക സാമ്പിൾ ചെറുതായിരിക്കുമ്പോൾ ശതമാനം ജാഗ്രതയോടെ ഉപയോഗിക്കുക പട്ടികയുടെ രൂപത്തിൽ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നതിനു ശതമാനം ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നമ്പറുകൾ ഇടുകയാണെങ്കിൽ പ്രായപരിധി ഇവിടെ ഇടട്ടെ ഞാൻ പ്രായം 12 മുതൽ 13 വരെയും 14 മുതൽ 15 വരെയും 16 മുതൽ 17 വരെയും ഇടുകയാണെങ്കിൽ ഇത് 5 6 2 ആണെന്ന് ഞാൻ പറയട്ടെ ഇവിടെ 2 കാര്യങ്ങളാണ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിൽ 2 പോയിന്റ് 5 6 2 പെൺകുട്ടികൾ എന്നാൽ 5 പെൺകുട്ടികൾ 12 മുതൽ 13 വയസ്സ് വരെയും 6 പേർ 14 മുതൽ 15 വരെയും 2 പേർ 16 മുതൽ 17 വരെയും ആണ് അതുപോലെ എനിക്ക് ആൺകുട്ടികൾ 6 8 3 ആകാം ആകെ ഇവിടെ 5 6 2 13 117 മൊത്തത്തിൽ ആകെ 30 ഇവിടെയും എനിക്ക് ആകെ 5 ഉം 6 ഉം 11 6 ഉം 8 എന്നത് 14 2 ഉം 3 ഉം 5 ഉം ആകാം അതിനാൽ ആകെ ഈ ഭാഗത്തു നിന്നോ ഈ ഭാഗത്തു നിന്നോ ആണ് ഈ ടേബിളിനു ഹെഡിങ് ഉണ്ട് നിങ്ങൾക്ക് ഇതിനെ ക്രഷ് എന്ന് വിളിക്കാം പിന്നെ ഇവിടെ പ്രായം ഉണ്ട് ഇതാണ് പ്രായം ഇവിടെ നമുക്ക് പ്രായമുണ്ട് തുടർന്ന് അവരുടെ ലിംഗഭേദം ഇവിടെയുണ്ട് ഞാൻ അതിനെ ഇവിടെ അവരുടെ ലിംഗഭേദം എന്ന് വിളിക്കുന്നു ഇതാണ് പട്ടിക ഈ ഡാറ്റയെ ശതമാനത്തിന്റെ രൂപത്തിലും പ്രതിനിധീകരിക്കാം ഡാറ്റ ഇതുപോലെയാണെങ്കിൽ എനിക്ക് 5 ന് പകരം അതേ പട്ടികയിൽ പ്രാതിനിധ്യം നൽകാം എനിക്ക് 5 ബൈ 30 16 7 ശതമാനം 6 ബൈ 30 20 ശതമാനം 2 ബൈ 30 6 7 ശതമാനം ഇത് വീണ്ടും 20 ശതമാനം ഇത് വീണ്ടും 8 ബൈ 30 26 7 ശതമാനമാണ് ഈ 3 ബൈ 30 എന്നത് 10 ശതമാനമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ടാബുലാർ ഫോം ഫോർമുലേഷൻ ഗുഡ്നെസ്സ് ഓഫ് ഹിറ്റിനായി ഉപയോഗിക്കുന്നു

അതിനാൽ ഇതാണ് ഡാറ്റ വിഷ്വലൈസേഷൻ അടുത്തതായി ഈ പ്രഭാഷണത്തിന്റെ ഡെമോ പാർട്ടിലേക്കു ഞാൻ നിങ്ങളെ കൊണ്ടുപോകും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ ഗ്രാഫിക്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നമ്മൾചർച്ച ചെയ്യും കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ചർച്ച ചെയ്യുകയും സെൻട്രൽ ടെൻഡൻസിയുടെ പ്രധാന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു അതായിരുന്നു മീഡിയൻ മോഡ് പിന്നെ ഡിസ്പെൻഷന്റെ അളവ് പിന്നെ നമ്മൾ സ്ഥാനം കണ്ടെത്തുന്നത് ചർച്ചചെയ്തു ക്വാർട്ടൈലുകളും പെർസന്റൈലുകളും ചർച്ചചെയ്തു ഡിസ്പെൻഷന്റെ അളവ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ഡാറ്റാ വിഷ്വലൈസേഷന്റെ ഉപയോഗങ്ങളും വ്യത്യസ്ത ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളും ഗ്രാഫുകളും നമ്മൾ ചർച്ചചെയ്തു പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കണ്ടുമുട്ടാം നമ്മൾ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യും തുടർന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും